ഈ സെഷനിലേക്ക് സ്വാഗതം ഇതുവരെ ഞങ്ങൾ ചില വൈറ്റ് ബോക്സ് പരിശോധന തന്ത്രങ്ങൾ കണ്ടു സ്റ്റേറ്റ്മെന്റ് കവറേജ് ബ്രാഞ്ച് കവറേജ് കണ്ടീഷൻ കവറേജ് എന്നിവ ഞങ്ങൾ കണ്ടു ബേസിക് കണ്ടീഷൻ കവറേജ് ഒന്നാണെന്ന് ഞങ്ങൾ കണ്ടു അവിടെ ഓരോ ഘടകങ്ങളും ശരിയും തെറ്റായ മൂല്യങ്ങളും കണക്കാക്കണം മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് ഞങ്ങൾ കണ്ടു സാധ്യമായ എല്ലാ കോമ്പിനേഷൻ സബ് ട്രൂത്ത് മൂല്യങ്ങളും ബേസിക് വ്യവസ്ഥകളാൽ അനുമാനിക്കണം പിന്നെ ഞങ്ങൾ കണ്ടീഷൻ ഡിസിഷൻ കവറേജും പരിശോധിച്ചു കണ്ടീഷൻ ബേസ്ഡ് ടെസ്റ്റിംഗിന്റെ ഒരു പ്രധാന പോരായ്മ ഒന്നിലധികം കണ്ടീഷൻ ടെസ്റ്റിംഗ് വളരെയധികം ടെസ്റ്റ് കേസുകൾ സൃഷ്ടിക്കുന്നു അതിനാൽ അത് അപ്രായോഗികമാണ് മറുവശത്ത് ബേസിക് കണ്ടിഷൻ കവറേജ് വളരെ ദുർബലമായ പരിശോധനയാണ് എക്സ്പോണൻഷ്യൽ ടെസ്റ്റ് കേസുകളില്ലാതെ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് പരിശോധിക്കുന്നതിന്റെ സമഗ്രത കൈവരിക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നോക്കാം അതിനാൽ അത് MCDC പരിശോധനയെക്കുറിച്ചാണ് MCDC പരിശോധനയിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ലളിതമോ ബേസിക് ആയ കണ്ടിഷൻ പരിശോധനയിൽ ഓരോ ബേസിക് അവസ്ഥയും ഘടക വ്യവസ്ഥകളും ശരിയും തെറ്റായ മൂല്യങ്ങളും എടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്ഇൽ രണ്ട് ബേസിക് വ്യവസ്ഥകളുണ്ട് ഇവയിൽ ഓരോന്നും ശരിയും തെറ്റായ മൂല്യങ്ങളും എടുക്കേണ്ടതുണ്ട് അതിനാൽ ഇനിപ്പറയുന്ന രണ്ട് ഇൻപുട്ട് ടെസ്റ്റ് ഇൻപുട്ടുകൾ ബേസിക് കണ്ടീഷൻ കവറേജ് നേടും കാരണം ആദ്യത്തേത് a 15 ഞങ്ങൾ ഇത് ശരിയാക്കുകയും b30 ഞങ്ങൾ ഇത് ശരിയാക്കുകയും a5 ഞങ്ങൾ അത് തെറ്റായി സജ്ജമാക്കുകയും ചെയ്യും b 60 ഞങ്ങൾ ഇത് തെറ്റായി സജ്ജമാക്കും പക്ഷേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ബേസിക് കണ്ടിഷൻ കവറേജ് ഡിസിഷൻ കവറേജ് ഉപയോഗപ്പെടുത്തുമോ എന്നതാണ് ബേസിക് കണ്ടിഷൻ കവറേജ് ഡിസിഷൻ കവറേജിനേക്കാൾ ശക്തമായ പരിശോധനയാണോ ഇതിന് ഉത്തരം നൽകാൻ നിങ്ങൾ വളരെ കഠിനമായി ചിന്തിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ എനിക്ക് ഇവ രണ്ടും തുല്യമായി തിരഞ്ഞെടുക്കാൻ കഴിയും ഇത് സത്യവും തെറ്റായതും തെറ്റായതും സത്യവുമാണ് അതിനാൽ ബേസിക് കണ്ടിഷൻ കവറേജ് നേടുന്നു അതേസമയം ഡിസിഷൻ കവറേജ് നേടാനായില്ല ഞാൻ ആവർത്തിക്കട്ടെ എനിക്ക് ആദ്യ നിബന്ധന ശരിയാക്കാം രണ്ടാമത്തേത് തെറ്റാണ് രണ്ടാമത്തെ ടെസ്റ്റ് കേസിൽ എനിക്ക് ഇത് തെറ്റാണെന്നും ഇത് ശരിയാണെന്നും എനിക്ക് പറയാൻ കഴിയും അതിനാൽ ഈ രണ്ട് കംപോണൻറ് വ്യവസ്ഥകളും ശരിയും തെറ്റായ മൂല്യങ്ങളും എടുത്തിട്ടുണ്ട് എന്നാൽ ഓരോ തവണയും ഡിസിഷൻ തെറ്റായി വിലയിരുത്തുന്നു അതിനാൽ ഡിസിഷൻ കവറേജ് നേടാനാവില്ല ബേസിക് കണ്ടിഷൻ കവറേജ് ഡിസിഷൻ കവറേജ് ഉൾക്കൊള്ളുന്നില്ല എന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു ടെസ്റ്റിംഗ് വളരെ അവബോധജന്യമായി ലളിതമായ ടെസ്റ്റിംഗ് ടെക്നിക് ആണെങ്കിലും ബേസിക് കണ്ടിഷൻ കവറേജ് വളരെ ദുർബലമായ പരിശോധനയാണ് സ്റ്റേറ്റ്മെന്റ് കവറേജിനേക്കാൾ ദുർബലമാണ് പക്ഷേ ബേസിക് കണ്ടിഷൻ കവറേജ് ആവശ്യമാണെന്ന് മാത്രമല്ല ഡിസിഷൻ കവറേജും വേണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നു അതിനാൽ അത് കണ്ടിഷൻ അല്ലെങ്കിൽ ഡിസിഷൻ കവറേജ് എന്നറിയപ്പെടുന്നു അതിനാൽ ഇവിടെ ഓരോ ആറ്റോമിക് കണ്ടിഷനും ശരിയും തെറ്റായ മൂല്യങ്ങളും കണക്കാക്കണം കൂടാതെ ഡിസിഷൻ തന്നെ ശരിയും തെറ്റായ മൂല്യങ്ങളും നേടുന്നുവെന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് എന്നിട്ട് ഒന്നിലധികം കണ്ടീഷൻ കവറേജും ഞങ്ങൾ കണ്ടു അവിടെ വ്യത്യസ്ത ആറ്റോമിക് കണ്ടീഷനുകൾ ട്രൂത്ത് മൂല്യങ്ങളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനും കണക്കാക്കണം മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് എന്നതുകൊണ്ട് ഞങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിക്കാൻ നമുക്ക് a അല്ലെങ്കിൽ b c പോലുള്ള ഒരു ഉദാഹരണം കോമ്പൌണ്ട് കണ്ടിഷൻ ആണെങ്കിൽ ഇവിടെ മൂന്ന് ആറ്റോമിക് കണ്ടിഷൻ ഉണ്ട് a b c അതിനാൽ ബേസിക് കണ്ടിഷനുകളുടെ ട്രൂ മൂല്യങ്ങളുടെ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും പരീക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് എട്ട് ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് a b c എല്ലാം ശരിയാക്കി ശരി ശരി തെറ്റ് തുടങ്ങിയവ കംപോണൻറ് കണ്ടിഷനുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടാൻ ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം ഗണ്യമായി വലുതായിത്തീരുന്നു അതിനാൽ ഞങ്ങൾക്ക് പത്ത് ബേസിക് കണ്ടിഷൻ ഉണ്ടെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടുന്നതിന് ഞങ്ങൾക്ക് ആയിരം ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് ഞങ്ങൾക്ക് 20 കംപോണൻറ് കണ്ടിഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ദശലക്ഷം ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് ഞങ്ങൾക്ക് 30 ബില്ല്യൺ ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം അവ യഥാർഥത്തിൽ സംഭവിക്കുന്നത് പല കോമ്പിനേഷനുകളും കണ്ടീഷണൽ എക്സ്പ്രെഷനുകളിലെ കംപോണൻറ് കണ്ടിഷനുകളും ഉണ്ടോ അതെ പല ആപ്ലിക്കേഷനുകളിലും അവ സംഭവിക്കുന്നു ഉദാഹരണത്തിന് കൺട്രോൾ അപ്ലിക്കേഷനുകൾ കൺട്രോൾ പ്രവർത്തനം നിരവധി വ്യവസ്ഥകളെ ആശ്രയിച്ചിരിക്കും കൺട്രോളറുകളിൽ 20 30 കംപോണൻറ് കണ്ടിഷൻ വളരെ സാധാരണമാണ് കൂടാതെ മറ്റ് നിരവധി ആപ്ലിക്കേഷനുകളും ഉണ്ട് അവിടെ നമുക്ക് ഇരുപതോ മുപ്പതോ ആറ്റോമിക് അവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഒരു കോമ്പൌണ്ട് കണ്ടിഷൻ ഉണ്ടാകാം അതിനാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് അപ്രായോഗികമാണ് ടെസ്റ്റ് കേസുകളുടെ എണ്ണം ശരിക്കും വർദ്ധിപ്പിക്കാതെ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് പരിശോധനയുടെ സമഗ്രത ഞങ്ങൾ എങ്ങനെയെങ്കിലും നേടേണ്ടതുണ്ട് അതിനാൽ ഇത് കണ്ടിഷൻ ടെസ്റ്റിങ് ടെസ്റ്റ് കേസുകളുടെ ആവർത്തനമാണ് ചില പോരായ്മകൾ അതിനാൽ ടെസ്റ്റ് കേസുകൾ അനാവശ്യമാണ് കാരണം കംപൈലറിന്റെ ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ പല ടെസ്റ്റ് കേസുകളും കാരണം അവ യഥാർത്ഥത്തിൽ ഒരേ മൂല്യങ്ങളിലേക്കോ അതേ എക്സ്പ്രഷൻ മൂല്യനിർണ്ണയത്തിലേക്കോ അതേ കണ്ടീഷണൽ എക്സ്പ്രഷൻ വിലയിരുത്തൽ ഫലങ്ങളിലേക്കൊ മാപ്പ് ചെയ്യുന്നു അതിനാൽ ചില ടെസ്റ്റ് കേസുകൾ അനാവശ്യമായി മാറുന്നു കൂടാതെ ചില കവറേജ് നേടാനാകില്ല ചില കണ്ടിഷനുകൾ കോമ്പിനേഷനുകൾ നേടാൻ കഴിയില്ല ഉദാഹരണത്തിന് ക്യാരക്റ്റർ A ന് തുല്യമോ ക്യാരക്റ്റർ E ന് തുല്യമോ ആണെന്ന ഈ ഉദാഹരണം മാത്രം നമുക്ക് രണ്ടും ഒരേ സമയം നേടാൻ കഴിയില്ല അതിനാൽ ഈ കേസിൽ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടാൻ കഴിയില്ല ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയം എന്താണെന്ന് പുതുക്കുന്നതിന് a 30 തെറ്റാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ കംപൈലർ b50 വിലയിരുത്തേണ്ടതില്ല അതുപോലെ a 30 ശരിയാണെങ്കിൽ രണ്ടാമത്തെ വ്യവസ്ഥയിൽ എന്താണുള്ളത് എന്നത് പരിഗണിക്കാതെ തീരുമാനത്തിന്റെ ഫലം പറയാം രണ്ടാമത്തെ കണ്ടിഷൻ വിലയിരുത്തിയിട്ടില്ല ആദ്യ കണ്ടിഷൻ അടിസ്ഥാനമാക്കിയാണ് തീരുമാന ഫലം കണക്കാക്കുന്നത് അതിനാൽ ഇവയാണ് ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ കംപൈലറുകൾ സ്വീകരിച്ച ചില ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയ വിദ്യകൾ ഇപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് അതിന്റെ സമഗ്രത കൈവരിക്കാൻ ഞങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം ക്ഷമിക്കണം MC DC കവറേജ് നേടാൻ കഴിയും എക്സ്പോണൻഷ്യൽ ടെസ്റ്റ് കേസുകളുടെ ആവശ്യമില്ലാതെ ഒന്നിലധികം കണ്ടീഷൻ കവറേജിന്റെ സമഗ്രത കൈവരിക്കാൻ സഹായിക്കുന്നു അതിനാൽ ഇവിടെ നമുക്ക് 5 കംപോണൻറ് വ്യവസ്ഥകളുണ്ടെന്ന് കാണിക്കുന്ന ഈ ഉദാഹരണം അതിനാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജിനായി ഞങ്ങൾക്ക് 32 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് പക്ഷേ ഞങ്ങൾ കംപൈലറുകൾ സ്വീകരിച്ച ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയ വിദ്യകൾ ഉപയോഗിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വ്യത്യസ്ത കംപൈലറുകൾ സ്വീകരിക്കുന്ന ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ കണ്ടീഷൻ കവറേജ് വെറും 13 ഉപയോഗിച്ച് ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടിയേക്കാം അതിനാൽ ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ കാരണം നിങ്ങൾ 32 ഉപയോഗിക്കേണ്ടതില്ല ഇപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഡിസിഷൻ കവറേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിനാൽ ഇവിടെ ഞങ്ങൾ വ്യവസ്ഥകളുടെ ചില പ്രധാന കോമ്പിനേഷനുകൾ പരിശോധിക്കുന്നു അതിനാൽ ടെസ്റ്റ് കേസുകളുടെ എണ്ണം വളരെ കുറവാണ് യഥാർത്ഥത്തിൽ ബേസിക് കണ്ടിഷനുകളുടെ എണ്ണത്തിൽ ലീനിയർ ആണ് ടെസ്റ്റ് കേസുകളുടെ വലുപ്പത്തിലുള്ള എക്സ്പോണൻഷ്യൽ ബ്ലോ ഞങ്ങൾ ഒഴിവാക്കുന്നു എന്നാൽ അതേ സമയം മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് പരിശോധനയുടെ അത്രയും സമഗ്രമായ പരിശോധന ഞങ്ങൾ നേടുന്നു ഇവിടെ നമുക്ക് ഈ കോമ്പൌണ്ട് കണ്ടിഷനു മൂന്ന് ആറ്റോമിക് അവസ്ഥകളുണ്ട് A 0 അല്ലെങ്കിൽ B 5 C 100 അതിനാൽ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഡിസിഷൻ കവറേജിൽ ഈ ബേസിക് കണ്ടിഷനുകളിൽ ഓരോന്നും ട്രൂഉം ഫാൾസ്ഉം ആയ മൂല്യങ്ങളും നേടാൻ ഞങ്ങൾ അനുവദിക്കുന്നു അത് സത്യവും തെറ്റായതുമായ മൂല്യങ്ങൾ കൈവരിക്കുമ്പോൾ മറ്റുള്ളവ നിരന്തരമായ ട്രൂ മൂല്യങ്ങൾ കൈവശം വയ്ക്കുന്നു ഈ ശരി തെറ്റായ മൂല്യങ്ങൾ ബ്രാഞ്ച് ഫലത്തെ നിർണ്ണയിക്കുന്നു അത് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് എങ്ങനെ ചെയ്തുവെന്നും ഇതിനായി ടെസ്റ്റ് കേസുകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്നും നോക്കാം നമ്മൾ ശ്രേണിയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കവറേജ് ഡിസിഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് കവറേജ് കണ്ടീഷൻ ഡിസിഷൻ കവറേജ് എന്നിവയേക്കാൾ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഡിസിഷൻ കവറേജ് ശക്തമാണ് പക്ഷേ ഇത് മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജിനേക്കാൾ ദുർബലമാണ് ഇപ്പോൾ MCDC പരിശോധനയിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ള ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നു എത്ര ടെസ്റ്റ് കേസുകൾ തുടങ്ങിയവ നോക്കാം അതിനാൽ MCDC പരിഷ്കരിച്ച കണ്ടിഷൻ ഡിസിഷൻ കവറേജിനെ സൂചിപ്പിക്കുന്നു ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദങ്ങൾ ഞാൻ അത് വീണ്ടും ആവർത്തിക്കാം അവസ്ഥ ഞങ്ങൾ അർത്ഥമാക്കുന്നത് ആറ്റോമിക് അവസ്ഥകളാണ് പ്രോഗ്രാം ഫ്ലോ നിർണ്ണയിക്കുന്ന ഒന്നാണ് ഡിസിഷൻ ഇത് കൺട്രോൾ ഫ്ലോ കോമ്പൌണ്ട് കണ്ടിഷന്റ്റെ ഫലം നിർണ്ണയിക്കുന്നു അതിനാൽ ഇതൊരു പരിഷ്ക്കരിച്ച കണ്ടിഷൻ ഡിസിഷൻ കവറേജാണ് ഇവിടെ പ്രധാന ആശയം ഓരോ ആറ്റോമിക് അവസ്ഥയും ശരി തെറ്റായ മൂല്യങ്ങളിലേക്ക് സജ്ജമാക്കും എന്നതാണ് കൂടാതെ ഇത് ശരി തെറ്റായ മൂല്യങ്ങൾ മറ്റ് ബേസിക് വ്യവസ്ഥകൾ മറ്റ് ആറ്റോമിക് അവസ്ഥകൾ എന്നിവ സ്ഥിരമായ മൂല്യത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് കൂടാതെ ഈ ആറ്റോമിക് കണ്ടിഷൻ കോമ്പൌണ്ട് അവസ്ഥയുടെ ഫലമോ തീരുമാനമോ നിർണ്ണയിക്കും അതിനാൽ ഇവിടെ മൂന്ന് ആവശ്യകതകൾ ഉണ്ട് പ്രോഗ്രാമിലെ ഡിസിഷൻ ശരിയും തെറ്റായ മൂല്യവും കൈക്കൊള്ളണം എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാൽ സംയുക്ത കണ്ടിഷൻ ശരിയും തെറ്റായ മൂല്യവും എടുക്കണം തീരുമാനത്തിലെ ഓരോ ആറ്റോമിക് അവസ്ഥയും ശരിയും തെറ്റായ മൂല്യവും എടുക്കണം കൂടാതെ ഒരു ആറ്റോമിക് കണ്ടിഷൻ സത്യവും തെറ്റായതുമായ മൂല്യം എടുക്കുമ്പോൾ മറ്റ് ആറ്റോമിക് കണ്ടിഷൻ സത്യ മൂല്യങ്ങൾ സ്ഥിരമായി നിലനിർത്തണം ശരി തെറ്റായ മൂല്യം എടുക്കുന്നതിനാൽ ഈ ആറ്റോമിക് അവസ്ഥ തീരുമാനത്തിന്റെ ഫലം ശരിയും തെറ്റും തമ്മിൽ ടോഗിൾ ചെയ്യുന്നു ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ അത് വ്യക്തമാകണം ഇപ്പോൾ ആദ്യത്തെ ആവശ്യകത നോക്കാം അതിനാൽ ആദ്യത്തെ കണ്ടിഷൻ തീരുമാനമോ കോമ്പൌണ്ട് അവസ്ഥയോ ശരിയും തെറ്റായ മൂല്യവും എടുക്കണം എന്നതാണ് ഇതാണ് മുഴുവൻ കോമ്പൌണ്ട് അവസ്ഥയും ടെസ്റ്റ് കേസുകൾ ഈ ബ്രാഞ്ച് കണ്ടിഷൻ ശരിയും തെറ്റായ മൂല്യവും വിലയിരുത്തുന്നുവെന്ന് ഉറപ്പാക്കണം ഇത് തീർച്ചയായും ബ്രാഞ്ച് കവറേജിന് തുല്യമാണ് ഇപ്പോൾ രണ്ടാമത്തെ നിബന്ധന ഇവിടെയുള്ള ഓരോ ആറ്റോമിക് അവസ്ഥയും ശരിയും തെറ്റായ മൂല്യവും എടുക്കണം എന്നതാണ് അതിനാൽ ആദ്യത്തേത് സത്യവും തെറ്റായതുമായ മൂല്യം എടുക്കണം a 10 തുടർന്ന് a10 രണ്ടാമത്തേതും ശരിയും തെറ്റായ മൂല്യവും എടുക്കണം മൂന്നാമത്തേത് ശരിയും തെറ്റായ മൂല്യവും എടുക്കണം ഇപ്പോൾ മൂന്നാമത്തെ ആവശ്യകത ഞങ്ങൾ ബേസിക് കണ്ടിഷൻ സജ്ജമാക്കുമ്പോൾ ടെസ്റ്റ് കേസ് ബേസിക് വ്യവസ്ഥകളെ ശരി തെറ്റായ മൂല്യത്തിലേക്ക് സജ്ജമാക്കുന്നു മറ്റ് ബേസിക് കണ്ടിഷൻ ചില സ്ഥിരമായ മൂല്യത്തിൽ പിടിക്കണം ബേസിക് കണ്ടിഷൻ തീരുമാന ഫലത്തെ ബാധിക്കണം നമുക്ക് ഉദാഹരണം നോക്കാം അതിനാൽ ആദ്യത്തെ ബേസിക് കണ്ടിഷൻ നമുക്ക് നോക്കാം ഞങ്ങൾ ബേസിക് വ്യവസ്ഥയെ ട്രൂ ആയി സജ്ജമാക്കി എന്നിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം ശരിയും തെറ്റും ആണെന്ന് നമുക്ക് പറയാം അതിനാൽ ആറ്റോമിക് എക്സ്പ്രഷൻ ഈ അവസ്ഥയുടെ വിലയിരുത്തൽ ശരിയാകും ഇത് തെറ്റാണ് ഇത് ശരിയാണ് അതിനാൽ ശരിയോ തെറ്റോ ശരിയാണ് ഇത് ശരിയാകുമ്പോൾ ഫലം ശരിയാകും ഇപ്പോൾ ഇവ രണ്ടും ശരിയും തെറ്റും ആയി സൂക്ഷിക്കുന്നത് 10 ൽ കൂടുതൽ തെറ്റായി സജ്ജമാക്കും അതിനാൽ ഇത് ശരിയാകും ഇത് തെറ്റാണ് അതിനാൽ തെറ്റും സത്യവും തെറ്റായിരിക്കും അതിനാൽ ഈ ബേസിക് വ്യവസ്ഥ ശരിയും തെറ്റായ മൂല്യവും എടുക്കുന്നതിനാൽ ഫലം തെറ്റായിത്തീരും അതുപോലെ തന്നെ ബ്രാഞ്ച് ഫലവും മറ്റ് ബേസിക് വ്യവസ്ഥകളെ കോൺസ്റ്റന്റ് ട്രൂ സത്യ മൂല്യത്തിൽ നിലനിർത്തുന്നു അതുപോലെ ഞങ്ങൾ രണ്ടാമത്തേത് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ടെസ്റ്റ് കേസുകൾ സജ്ജമാക്കി ഇവ കൈവശം വയ്ക്കുമ്പോൾ ശരിയും തെറ്റും സജ്ജമാക്കുക ശരി തെറ്റായ മൂല്യം ശാഖയുടെ ഫലം ശരിയും തെറ്റും തമ്മിൽ ടോഗിൾ ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും അതുപോലെ മൂന്നാമത്തേത് ഞങ്ങൾ മൂന്നാമത്തെ ബേസിക് വ്യവസ്ഥയെ ശരിയും തെറ്റും ആയി സജ്ജമാക്കി ഇവ രണ്ടും ശരിയും തെറ്റും ആയി നിലനിർത്തുന്നു അതിനാൽ ബ്രാഞ്ച് ഫലം ടോഗിൾ ചെയ്യുന്നു ഇപ്പോൾ ഈ സാങ്കേതികവിദ്യ നന്നായി മനസിലാക്കാൻ മറ്റൊരു ഉദാഹരണം നോക്കാം നമുക്ക് 1 2 3 4 5 ഉള്ള മറ്റൊരു ഉദാഹരണം നോക്കാം 5 ടെസ്റ്റ് കേസുകൾ ക്ഷമിക്കണം 5 ബേസിക് വ്യവസ്ഥകൾ 6 ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ച് MCDC കവറേജ് നേടാൻ കഴിയുമെന്ന് ഞങ്ങൾ കാണും അതിനാൽ ഒരു തെളിവും നൽകാതെ ഒരു കോമ്പൌണ്ട് കണ്ടീഷണൽ എക്സ്പ്രെഷൻ n ബേസിക് വ്യവസ്ഥകൾ ഉള്ളപ്പോൾ നമുക്ക് n 1 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണെന്ന് അനുമാനിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ MCDC കവറേജ് നേടുന്നതിന് ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം ബേസിക് വ്യവസ്ഥകളുടെ എണ്ണത്തിൽ ലീനിയർ ആണ് അതിനാൽ നമുക്ക് ഇവിടെ നോക്കാം അതിനാൽ ഈ അഞ്ച് വ്യവസ്ഥകൾ ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ട്രൂ മൂല്യങ്ങളുണ്ട് ഞങ്ങൾ എപ്പോൾ അതിനാൽ a 10 ശരിയാണെങ്കിൽ ഇവ തെറ്റായ ശരി ശരിയാണെന്ന് സജ്ജമാക്കുമ്പോൾ തുടർന്ന് a 10 തെറ്റാണെങ്കിൽ മറ്റുള്ളവ മുമ്പത്തെപ്പോലെ തെറ്റായ സത്യമെന്ന് കണക്കാക്കുമ്പോൾ തുടർന്ന് ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുന്നു അതുപോലെ രണ്ടാമത്തെ ബേസിക് അവസ്ഥയ്ക്ക് അത് ശരിയും തെറ്റായ മൂല്യങ്ങളും കണക്കാക്കുന്നു ബാക്കിയുള്ളവ സ്ഥിരമായ മൂല്യത്തിൽ സൂക്ഷിക്കുന്നു ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുന്നു അതിനാൽ ഈ സത്യ മൂല്യങ്ങളിലേക്ക് സജ്ജമാക്കിയ ടെസ്റ്റ് കേസുകളാണ് MCDC കവറേജ് നേടുന്നത് എന്നാൽ ഏത് ടെസ്റ്റ് കേസുകളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അല്ലെങ്കിൽ MC DC കവറേജ് നേടുന്ന ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം ഞങ്ങൾ എങ്ങനെ MCDC ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യും A B എന്നീ ഉദാഹരണങ്ങൾ നോക്കാം അതിനാൽ ഞങ്ങൾ ആദ്യം ട്രൂത്ത് ടേബിളും ഡിസിഷൻ ഔട്ട്കം ഉം വികസിപ്പിക്കുന്നു അതിനാൽ A B ശരിയാകുമ്പോൾ തീരുമാനത്തിന്റെ ഫലം ശരിയാണ് എന്നിട്ട് നമ്മൾ A ട്രൂ ഉം B ഉം ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ശരിയാണോ എന്ന് പരിശോധിക്കുന്നു ഇപ്പോൾ നമ്മൾ A എന്ന് തെറ്റായി പിടിക്കുന്നത് ശരിയാണെന്ന് സജ്ജമാക്കുമ്പോൾ ഫലം തെറ്റാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടെസ്റ്റ് കേസ് ഒന്ന് ടെസ്റ്റ് കേസ് മൂന്ന് എന്നിവയ്ക്കൊപ്പം ആദ്യത്തെ ബേസിക് അവസ്ഥയുടെ സ്വതന്ത്ര വിലയിരുത്തൽ കൈവരിക്കും ഇപ്പോൾ Bയുടെ കാര്യമോ അതിനാൽ A യ്ക്കുള്ള ടെസ്റ്റ് കേസ് ജോഡി 1 ഉം 3 ഉം ആണെങ്കിൽ രണ്ടും മൂന്നും വിലയിരുത്തുമ്പോൾ നമുക്ക് ആദ്യത്തെ ആറ്റോമിക് കണ്ടീഷൻ A യ്ക്ക് സ്വതന്ത്രമായ വിലയിരുത്തൽ നേടാൻ കഴിയില്ലെന്നും ഒന്ന് തീർച്ചയായും നേടും എന്നു ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ Aക്ക് സ്വതന്ത്ര വിലയിരുത്തൽ നേടും ഇപ്പോൾ B യുടെ കാര്യമോ അതിനാൽ നിങ്ങൾ B സജ്ജമാക്കിയത് സത്യത്തിന് തുല്യവും A സത്യത്തിന് തുല്യവുമാണെങ്കിൽ ഫലം ശരിയാണ് ഇപ്പോൾ നമ്മൾ A യെ സത്യമായും B തെറ്റായും സൂക്ഷിക്കുകയാണെങ്കിൽ ഫലം തെറ്റാണ് അതിനാൽ ഒന്നിനൊപ്പം രണ്ടെണ്ണം ബേസിക് വ്യവസ്ഥ രണ്ട് സ്വതന്ത്രമായി വിലയിരുത്തുന്നു അതായത് B അതിനാൽ 1 3 1 പ്ലസ് 3 1 പ്ലസ് 2 എന്നിവ A B എന്നിവയുടെ സ്വതന്ത്രമായ വിലയിരുത്തൽ നേടുന്നു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങളുടെ MCDC ടെസ്റ്റ് കേസ് 1 2 3 ആയിരിക്കും ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അതിനാൽ ഈ കണ്ടീഷണൽ എക്സ്പ്രെനിലെ മൂന്ന് ബേസിക് വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കുറച്ചുകൂടി സങ്കീർണ്ണമായ ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ABCക്കായി ട്രൂത്ത് ടേബിൾ വികസിപ്പിക്കുകയും ഫലം ഇവിടെ എഴുതുകയും ചെയ്യുന്നു A യുടെ സ്വതന്ത്ര മൂല്യനിർണ്ണയം നേടുന്ന രണ്ട് ടെസ്റ്റ് കേസുകൾ ഏതെന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് നേടാൻ കഴിയുമോ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ A 1 ഉം BC 1 1 ഉം ആണ് ഇപ്പോൾ BC 1 1 ഉം A 0 ഉം ആണ് പക്ഷേ ഫലം ഇവിടെ 1 ആണ് അതിനാൽ ഫലം ടോഗിൾ ചെയ്യുന്നില്ല അതിനാൽ ഒന്നും രണ്ടും ഒന്നും A യുടെ സ്വതന്ത്രമായ വിലയിരുത്തൽ നേടുന്നില്ല 1 0 നെക്കുറിച്ച് എന്താണ് ഇപ്പോൾ 1 0 ഇവിടെയുണ്ട് ഇവിടെയും ഫലം ടോഗിൾ ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ നോക്കൂ മൂന്നാമത്തേത് A 1 ഉം BC 0 ഉം ആണ് ഏഴാമത്തേത് A 0 ഉം BC 0 1 ഉം ആണ് കൂടാതെ 7 ഫലം ടോഗിൾ ചെയ്യുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 3 ഉം ഏഴും ബേസിക് അവസ്ഥയെ സ്വതന്ത്രമായി വിലയിരുത്തും ഇപ്പോൾ B യുടെ കാര്യമോ അതുപോലെ ഞങ്ങൾ അന്വേഷിക്കും A C എന്നിവ സ്ഥിരമായി നിലനിർത്തുന്നതിലൂടെ നമ്മൾ ടോഗിൾ ചെയ്യുമ്പോൾ ഫലം ടോഗിൾ ചെയ്യും അതിനാൽ ഞങ്ങൾ ഇത് കണ്ടെത്തി നാലെണ്ണം ഏഴ് അതിനാൽ നാലിൽ B സെറ്റ് 1 ഉം A C എന്നിവയും 0 1 ഉം B 0 ഉം 0 ഉം ഇത് 0 1 ഉം ആയി സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ ഫലം ടോഗിൾ ചെയ്യുന്നു അതുപോലെ C 1 ആണ് അതിനാൽ ഞങ്ങളുടെ MCDC ടെസ്റ്റ് കേസ് 1 2 3 4 7 ആയിരിക്കും നിങ്ങൾ ഒരു കോമ്പൌണ്ട് കണ്ടിഷൻ നൽകുമായിരുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനായി MCDC ടെസ്റ്റ് കേസുകൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയും പക്ഷേ MCDC കവറേജ് നേടാൻ കഴിയുന്ന നിരവധി ടെസ്റ്റ് കേസുകൾ ഉണ്ടാകാം കൂടാതെ ഏറ്റവും കുറഞ്ഞ ടെസ്റ്റ് കേസുകളും ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി ഞങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തുന്നു മുമ്പത്തെ ഉദാഹരണങ്ങൾ പോലെ ഏത് ജോഡികളാണ് സ്വതന്ത്ര മൂല്യനിർണ്ണയം നേടുന്നതെന്ന് കണ്ടെത്തുക ഒന്നിലധികം ജോഡികൾ സ്വതന്ത്ര മൂല്യനിർണ്ണയം നേടുന്നതായി ഞങ്ങൾ കണ്ടെത്തും ഉദാഹരണത്തിന് 1 ഉം 5 ഉം ആദ്യത്തെ ബേസിക് അവസ്ഥയുടെ സ്വതന്ത്ര വിലയിരുത്തൽ നേടുന്നു 2 6 3 7 5 1 6 2 7 3 ഇത് A യുടെ സ്വതന്ത്രമായ വിലയിരുത്തൽ കൈവരിക്കുന്നു അതുപോലെ 2 ഉം 4 ഉം 4 ഉം 2 ഉം B യുടെ സ്വതന്ത്ര വിലയിരുത്തൽ നേടുന്നു അതാണ് രണ്ടാമത്തെ വ്യവസ്ഥ മൂന്നാമത്തേത് 3 ഉം 4 ഉം 4 ഉം 3 ഉം മാത്രമാണ് ഇപ്പോൾ MCDC കവറേജ് നേടുന്ന ടെസ്റ്റ് കേസുകൾ ഏതെന്ന് കണ്ടെത്തിയാൽ അത് 2 3 4 6 അല്ലെങ്കിൽ 2 3 4 7 അല്ലെങ്കിൽ 1 2 3 4 5 അതിനാൽ ഏറ്റവും കുറഞ്ഞ സെറ്റ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം അതിനാൽ MCDC ടെസ്റ്റിംഗ് വളരെ കുറച്ച് ടെസ്റ്റ് കേസുകളുള്ള വളരെ ഫലപ്രദമായ ടെസ്റ്റിംഗ് സാങ്കേതികതയാണെന്ന് ഞങ്ങൾ കണ്ടു ടെസ്റ്റ് കേസുകളുടെ എണ്ണം ബേസിക് വ്യവസ്ഥകളിൽ ലീനിയർ ആണ് MCDCയുടെ ചുരുക്കത്തിൽ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഓരോ ബേസിക് വ്യവസ്ഥയും സത്യവും തെറ്റായതുമായ മൂല്യങ്ങൾ കൈവരിക്കണം ബ്രാഞ്ച് കവറേജ് നേടണം മൂന്നാമത്തെ വ്യവസ്ഥ ഓരോ നിബന്ധനയും തീരുമാനത്തിന്റെ ഔട്ട്പുട്ടിനെ സ്വതന്ത്രമായി ബാധിക്കണം എന്നതാണ് കൂടാതെ ഇത് ഇതിനകം തന്നെ പറഞ്ഞതുപോലെ ഇത് പരിശോധനയുടെ സമഗ്രതയുടെയും ടെസ്റ്റ് വലുപ്പത്തിന്റെയും നല്ല ബാലൻസ് നൽകുന്നു അതിനാൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു മാത്രമല്ല പല പരിശോധന മാനദണ്ഡങ്ങളും അനുശാസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് പാത്ത് ടെസ്റ്റിംഗ് നോക്കാം പാത്ത് പരിശോധനയിൽ ഒരു പ്രോഗ്രാമിലെ എല്ലാ പാതകളും ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു പ്രോഗ്രാമിൽ വളരെയധികം പാതകളുണ്ടെന്ന് ഞങ്ങൾ കാണും അതിനാൽ ഒരു പ്രോഗ്രാമിലെ ലീനിയർ ഇൻഡിപെൻഡെന്റ് പാത്ത് ഉൾക്കൊള്ളുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഒരു പ്രോഗ്രാമിലെ കൺട്രോൾ ഫ്ലോ ഗ്രാഫുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാമിലെ പാതകളെ നിർവചിച്ചിരിക്കുന്നു ഇവിടെ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രോഗ്രാമിന്റെ വ്യത്യസ്ത നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ശ്രേണിയെ ഇത് പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രോഗ്രാമിലൂടെ നിയന്ത്രണം ചെയ്യുന്ന വഴി അതിനാൽ ഇത് ഞങ്ങൾ ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു പക്ഷേ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വരയ്ക്കും ഞങ്ങൾ നന്നായി മനസിലാക്കുന്നുവെങ്കിൽ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ് പ്രോഗ്രാമിന്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ് ഉം ഞങ്ങൾ നമ്പർ ചെയ്യുന്നു എന്നതാണ് ആദ്യത്തേത് ആ സംഖ്യകളിൽ ഓരോന്നും ഞങ്ങൾ അതിൽ നിന്ന് നോഡുകൾ നിർമ്മിക്കുന്നു അക്കമിട്ട ഓരോ എഡ്ജ്കൾക്കും ഞങ്ങൾ നോഡുകൾ വരയ്ക്കുന്നു ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷന് മറ്റ് നോഡിലേക്ക് കൺട്രോൾ കൈമാറാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഒരു നോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു എഡ്ജ് വരയ്ക്കുന്നു ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷന് മറ്റ് നോഡിലേക്ക് നിയന്ത്രണം കൈമാറാൻ കഴിയുമെങ്കിൽ അതിനാൽ നമുക്ക് ഈ പ്രോഗ്രാം നോക്കാം ഞങ്ങൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്കൾ നമ്പർ ചെയ്യുന്നു തുടർന്ന് നമ്പർ ചെയ്ത സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ച് ഞങ്ങൾ ഇവിടെ നോഡുകൾ വരയ്ക്കുന്നു കൺട്രോൾ നു ഒരു നോഡിൽ നിന്ന് മറ്റൊരു നോഡിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ച് ഞങ്ങൾ എഡ്ജ്കൾ വരയ്ക്കുന്നു പക്ഷേ ഇത് വരയ്ക്കുന്നതിന് നമുക്ക് ചിട്ടയായ ചില മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കണം കൂടാതെ ഓരോ പ്രോഗ്രാമിലും മൂന്ന് തരം സ്റ്റേറ്റ്മെൻറ് അടങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ക്രമം തിരഞ്ഞെടുക്കൽ ഐറ്റെറേഷൻ തരം അതിനാൽ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകള്ക്കനുസൃതമായ കൺട്രോൾ ഫ്ലോ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്കറിയാമെങ്കിൽ ഏത് പ്രോഗ്രാമിനുമുള്ള കൺട്രോൾ ഫ്ലോ വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയും കാരണം അവ ഈ മൂന്ന് ബേസിക് തരം സ്റ്റേറ്റ്മെൻറ് ഉൾക്കൊള്ളുന്നു അതിനാൽ ഈ മൂന്ന് തരം സ്റ്റേറ്റ്മെൻറ് നു ആയി ഞങ്ങൾ എങ്ങനെ കൺട്രോൾ ഫ്ലോ എഡ്ജ്കൾ വരയ്ക്കുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷം ഞങ്ങൾ വളരെ വലിയ ഒരു പ്രോഗ്രാം പോലും നൽകി നമുക്ക് അതിന്റെ കൺട്രോൾ ഫ്ലോ ഗ്രാഫ് വികസിപ്പിക്കാൻ കഴിയും അതിനാൽ അടുത്ത സെഷനിൽ ഞങ്ങൾ നോക്കും ഇപ്പോൾ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കും